ക്ലൌഡ് കംപ്യൂട്ടിങ്ങിന്റെ ഭാഗത്തു നിന്നും നോക്കുകയാണെങ്കിൽ ഇതു കാണാം ഒരുപാട് ഡേറ്റയുടെ പകർപ്പുകൾ വരുന്നുണ്ടാകും അത് ചോദ്യം ചെയ്യപ്പെടുവാനും സുധ്യതയുണ്ട് ഇത് വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ കൈവശമുള്ള കൺവൻഷണൽ നിന്നും ആണ് നോക്കി കാണുന്നത്

നമുക്ക് ഇനി റിലേഷണൽ ഡേറ്റാബേസിനെക്കുറിച്ച് നോക്കാം പിന്നെ സ്കെയിലബിൾ ആണ് നമുക്ക് വേണ്ടത് ഇത് ഡേറ്റയിലും ഇങ്ങനെ തന്നെ വേണം ഇത് കൂടുതലും വളരെ വലിയ വലിപ്പമുള്ള മാസ്സീവിലി പാരലൽ ടെക്സ്റ്റ് പ്രോസ്സസ്സിങ്ങിനാണ് വാങ്ങിക്കാം അപ്പോൾ ക്ലൌഡിൻറെ യഥാർത്ഥ ഗുണം നമ്മൾ ഉപയോഗിക്കുന്നില്ല ബിഗ് ടേബിൾ മോഡൽ അവയെല്ലാം തരുന്നത് വേറെ ആണ് പക്ഷേ എല്ലാവരുടെയും അടിസ്ഥാന തത്വശാസ്ത്രം ഒരുപോലെയാണ് നമുക്ക് ഇവിടെ റിലേഷണൽ ഡേറ്റാബേസിലേക്കു അതായത് SQL അത് വെച്ച് നമുക്ക് ഉപഭോക്താവിന്റെ പ്രോഗ്രാമുമായി സമ്പർക്കം പുലർത്താം ഇവിടെ നമുക്ക് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ് പാർസർ പത്തുലക്ഷം തൊട്ട് കുറച്ച് ആയിരങ്ങൾ വരെ പോകാം അതുപോലെ R2 ഇൽ ആണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ജോയിൻ ചെയ്യുന്നത് കുറച്ചുകൂടി വില കുറവായിരിക്കും ഇവിടെ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ആദ്യം ആകുകയാണെങ്കിൽ ഡേറ്റാബേസ് ഒപ്റ്റിമൈസേഷൻ എന്ന പ്രശ്നം ക്ലൌഡിൽ ഒരുപാട് വരുന്നില്ല പക്ഷേ റിലേഷണൽ ഡേറ്റാബേസ് നമ്മളെ ഒപ്റ്റിമൈസ് ചെയ്യാൻ സഹായിക്കുന്നു

ഡിസ്ക് സ്പയിസ് മാനേജ്മെന്റ് ലെയർ കുറച്ചു കൂടി നല്ലതാക്കുവാൻ ശ്രമിക്കുകയും കാര്യക്ഷമമുള്ളതാക്കുവാൻ ശ്രമിക്കുകയും മറ്റേത് അവയെ സൂക്ഷിച്ചു വക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ചില ചോദ്യങ്ങൾക്ക് 5 ടേബിളുകൾ വേണ്ടി വരാം അത് അടുത്തു തന്നെ ഉണ്ടെങ്കിൽ കുറച്ചു കൂടി എളുപ്പത്തിൽ എടുക്കുവാൻ സാധിക്കും അപ്പോൾ ഡേറ്റാ ഫയൽ സിസ്റ്റം ലെയർ നമ്മൾ നേരത്തെ RDBM പാർസൽ കണ്ടു പിന്നെ ഡിസ്ക് സ്പേസ് മാനേജ്മെൻറ് ലെയർ കണ്ടു അതിനുശേഷം ഇനി ഡേറ്റാബേസ് ഫയൽസിസ്റ്റം ലെയർ ആണ് അത് വോയിസ് ഫയൽ സിസ്റ്റത്തിൽ നിന്നും സ്വതന്ത്രമാണ് അത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ഫയൽ സിസ്റ്റമാണ് മെമ്മറിയിലുള്ള പേജുകളെ എടുക്കാനും സൂക്ഷിക്കാനും വേണ്ടിയുള്ള പൂർണ സ്വാതന്ത്ര്യത്തിനായിട്ട് ഡേറ്റാബേസിലുള്ള ഫയലുകളെ ഒരുപാട് ഡിസ്കുകളിലോട്ടു സ്പാൻ ചെയ്യുന്നു അപ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നു മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓപ്പറെറ്റിങ്ങ് സിസ്റ്റത്തെ ആശ്രയിച്ച് നിന്നിട്ടാണ് ഇവയെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ കുഴപ്പം ഉണ്ടാകുകയില്ല ഡേറ്റ ബെയ്സ്സിൽ ലോഡ് ആകാം ഇവയാണ് അധികമായിട്ടുള്ളവയെ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ ഡൌൺ ടൈം വളരെ കുറവുമാണ് അതിനർത്ഥം ഇത് തോൽക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു ഡേറ്റാ ബെയ്സ് ആണ് എന്നാണ് റോ ഓറിയൻറ്റട് സ്റ്റോറെജ് എന്നത് ഒരു ഡേറ്റാ ബെയ്സ് സ്റ്റോറെജ് ആണ് നമ്മുടെ കൈയിൽ ടൂപ്പിൾസ് ഉണ്ട് ഇവിടെ ഒപ്റ്റിമൽ ആയിട്ടുള്ള റൈറ്റ് ഓരിയന്റട് കൂട്ടി വയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് നമ്മൾ കോളങ്ങളുടെ ഡൈമനിഷനുകളുടെ മൂല്യം അനുസരിച്ചു വേണം ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഡേറ്റാ വെയർഹൌസിനെ കുറിച്ച് കൂടുതൽ നോക്കുന്നില്ല അവക്ക് മറ്റൊരു ഡൈമന്ഷൻ ടേബിളുകളാണ് ഉള്ളത് ഇവിടെയുള്ള ഓപ്പറേഷനുകൾ എല്ലാം കുറച്ചു കൂടി ചേർന്നതാണ് നമുക്ക് ചെയ്യെണ്ടത് ചില അനാലിസ്സിസുകൾ പോലുള്ള കാര്യങ്ങൾ ആണ് അപ്പോൾ ടേബിളിൻറെ പ്രൊജക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് പ്രൊജക്ഷനുകൾ തരംതിരിച്ച് ഇൻഡക്സ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് കാരണം സ്ഥാപനത്തിന് ഓരോ കാര്യങ്ങൾക്കും പല തരത്തിലുള്ള കാഴ്ചപാടുകൾ ഉണ്ട് അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ വേണം സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഈ ഡേറ്റാ സ്റ്റോറേജ് ടെക്നിക്കുകളെ ആയിട്ടുള്ള പുസ്തകങ്ങളിൽ ആയിരിക്കും കിട്ടുക ഇവിടെ നമ്മൾ പാരലൽ ഡേറ്റാബേസി ആർക്കിടെക്ചറിലോട്ട് നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് തിരിച്ചു വരാം ഇത് ഷെയേഡ് മെമ്മറിയുടെ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ അറ്റത്തുള്ളത് ഷെയേഡ് നതിംഗ് അങ്ങനെയുള്ളവ വെച്ചിട്ടാണ് ഇത് ഒരു ഷെയേഡ് സ്റ്റോറേജ് ആണ് ഇതെല്ലാം പലതരത്തിലുള്ള പ്രോസസറുകൾ ആണ് നമ്മളുടെ പാരലലിസം വെച്ച് ഇതിലേതാണ് വേണ്ടത് എന്നുള്ളത് വെച്ച് നമുക്ക് പോകാം ഇവിടെ നമുക്ക് കാണാൻ ഇത് കുറച്ചു കൂടി കാര്യപ്രാപ്തി ഉള്ളതാണ് മെമ്മറി കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി നിബിഡമാണ് പക്ഷേ ഇവിടെ ഓരോ പ്രോസസറുകളും പ്രത്യേകം ആയിട്ടുള്ള ഡേറ്റ സെറ്റിൽ ആണ് ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ മെഷീനുകളും അവിടെയുണ്ട് ഇത് ഗുണകരമായ ഒരു കാര്യമാണ് ഇനി നമുക്ക് റിലേഷണൽ ഡേറ്റാബേസിനേക്കാൾ പാരലൽ ഡേറ്റാബേസിനുള്ള ഗുണങ്ങൾ നോക്കാം എന്തൊക്കെയായിരിക്കും അവ റിലേഷണൽ ഡേറ്റാബേസ് SQL ൽ ചോദ്യങ്ങളെ കാര്യപ്രാപ്തിയോടെ ഒരുപാട് പ്രോസസറുകൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിവുള്ളവയാണ് ഷെയേഡ് നത്തിങ് ആർക്കിടെക്ചറിൽ ടേബിളുകളെ നമുക്ക് വേർതിരിച്ച് വിതരണം ചെയ്യാൻ പറ്റും പ്രോസസിംഗ് ടെബിളിലൂടെ അതായത് എനിക്ക് ഈ ടേബിളിനെ വേർതിരിക്കാം അതിലുള്ള എല്ലാ ഡേറ്റ അക്കൌണ്ടുകളെയും നമുക്ക് പാരലൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും പല ദിവസങ്ങളിലായി നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും ഈ പ്രോസസർ ജോലി ചെയ്യുന്നത് പൂർണമായും നമ്മളെ ആശ്രയിച്ചായിരിക്കും നമ്മൾ എന്ത് വർക്കിംഗ് മെക്കാനിസം ആണ് കൊടുക്കുന്നത് എന്നതനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ജോയിൻസുകളെ കൈകാര്യം ചെയ്യുന്നത് SQL ഒപ്റ്റിമൈസർ ആണ് അപ്പോൾ എപ്പോഴൊക്കെയാണോ നമുക്ക് ജോയിൻ ആവശ്യം വരുന്നത് നമ്മൾ SQL ഒപ്റ്റിമൈസറിനെ വിതരണം ചെയ്യേണ്ടിവരും അപ്പോൾ ടു ഫേസ് ഉപയോഗിക്കാം അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പിഴവ് ഉണ്ടായാൽ എനിക്ക് ആ പ്രത്യേക എക്സിക്യൂഷനെ മറ്റൊരു സ്റ്റാൻഡ്ബൈ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ സാധിക്കും ഇതിൽ ഡേറ്റകളെ കമ്പ്യൂട്ടേഷൻ ചെയ്തു വീണ്ടും സൂക്ഷിക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ഡേറ്റവെയർഹൌസ് പോലുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അപ്പോൾ ഇതൊക്കെയാണ് പാരലൽ പ്രോസസ് നോക്കാം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ പറ്റും ഈ മുഴുവൻ സംഭവങ്ങളും ഇതിൽ നിന്നും എടുത്ത് മാറ്റി പുതിയത് ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല കാരണം ഡേറ്റാബെയ്സ് ഇവിടെ വളർന്നു കഴിഞ്ഞു അത് ഒരു ഫോൾട്ട് ടോളറൻറ് ആണ് കാര്യ പ്രാപ്തിയുള്ളതാണ് അതുപോലെ തന്നെ റെയ്ഡുകളും അതിൽ തന്നെയുണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളും ഇതിൽ ഉണ്ട് ക്ലൌഡ് ഫയലിലെ മറ്റൊരു പ്രബലമായ ഒന്നാണ് ഗൂഗുൾ ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ജി എഫ് എസ്സ് ബന്ധപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇതിന് ഏതെങ്കിലും ഫയലുകളിൽ ഉളള എഴുത്തോ വായനയിലോ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുവാൻ പറ്റും ഫോൾട്ട് ടോളറന്റ് വളരെ ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ കൈയിൽ ഇപ്പോൾ ഒരു സിസ്റ്റം നിന്നു ലഭിക്കും ഇവിടെ നമുക്ക് സാധാരണയായി വരുന്ന GFSന്റെ ഒരു വലിയ ചിത്രം കാണാം ഇവിടെ പല ഘടകങ്ങളും ഉണ്ട് മാസ്റ്റർ അല്ലെങ്കിൽ നെയിം നോഡുകൾ മാസ്റ്റർ നോഡ് GFS നകത്ത് അല്ലെങ്കിൽ നെയിം നോഡ് HDFS നകത്തും പിന്നെ ദാ ക്ലയന്റ് ആപ്ലിക്കേഷനുകളുണ്ട് നിയന്ത്രിക്കുന്നു നെയിം സ്പേസിനെ നിയന്ത്രിക്കുന്നത് ഒറ്റക്കുള്ള ഒരു മാസ്റ്ററാണ് നെയിം സ്പേസ് വളരെ പ്രധാനമാണ് കാരണം അത് ഒരു ഡേറ്റയെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നും എടുക്കുന്നു എന്നും പറഞ്ഞു തരുന്നു അത് ഒരു മെറ്റാഡേറ്റ പോലുള്ള ഒന്നാണ് അതിനെ നിയന്ത്രിക്കുന്നത് മാസ്റ്ററാണ് വലിയ ഫയലുകളെ നമ്മൾ മുറിച്ച് ചങ്കുകൾ സെഗ്മെന്റിൽ പകർത്തുന്നു അപ്പോൾ ഇവിടെ നമുക്ക് GFS ഉണ്ട് HDFS ഉണ്ട് അതിനുതാഴെ ചങ്ക് സർവറുകൾ ഉണ്ട് അത് അടിസ്ഥാനപരമായി ലിനക്സ് സർവർ ചങ്ക് സർവർ അല്ലെങ്കിൽ ഡേറ്റാ നോഡ് ആണ് ഇവിടെ GFS ന്റെ റീഡ് ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഉപഭോക്താവ് ഒരു മാസ്റ്റർലേക്കുള്ള ഫയലിന്റെ ഫുൾ പാത് ഓഫ്സെറ്റ് കൊടുക്കുന്നു അവിടെ അതിന് നോഡിനെ വായിക്കുകയോ അല്ലെങ്കിൽ നെയിം ചെയ്യുകയോ ചെയ്യണം HDFS ന്റെ കാര്യത്തിൽ ഇവിടെ നമ്മൾ GFS നെ ഉപയോഗിക്കാൻ പറയുന്നു അതേസമയം നെയിമിനോട് ആണെങ്കിൽ HDFSനെ പറയുന്നു മാസ്റ്റർ മെറ്റാഡേറ്റ വഴിയാണ് ഓരോ ചങ്കിന്റെ പകർപ്പിനും ഉത്തരം തരുന്നത് ഡേറ്റ എവിടെയാണ് കണ്ടത് എന്നതിനെക്കുറിച്ച് ക്ലയൻറ് മെറ്റാഡേറ്റ ഉപയോഗിച്ച് കൂടുതൽ വേഗതയോടെ സാധനങ്ങൾ എടുക്കുന്നു വേണ്ട ചങ്ക് സർവറിൽ നിന്ന് അതിൻറെ ഡേറ്റ എടുക്കാൻ പറ്റും അപ്പോൾ മാസ്റ്റർ മെറ്റാഡേറ്റ ഉപയോഗിച്ച് ചങ്ക് സർവറിൽ ഉള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നു അപ്പോൾ റീഡ് ഓപ്പറേഷൻ ചങ്ക് സർവർ അല്ലെങ്കിൽ ചങ്ക് സർവറിന്റെ പകർപ്പ് കൊണ്ട് ചെയ്യുവാൻ സാധിക്കും അതെ സമയം റൈറ്റ് അപെന്റ് ഒപ്പറേഷൻ അതീതമായിട്ടാണ് എൻഡ് ഓഫ് ഫയലിന്റെ അതീതമായി ഒറ്റുപാട് എഴുത്തുകാർക്ക് ഒരുമിച്ച് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന അക്കൌണ്ടിലേക്ക് മാറ്റുന്നു ഇവിടെ വരുന്ന രസകരമായ കാര്യം എന്താണ് എന്നു വച്ചാൽ ഈ ഒ എഫ് ഒരുപാട് താമസം വരുന്നില്ല കാരണം അത് ഓരോ പ്രാവശ്യവും കണക്കുകൂട്ടും എന്നിട്ട് നേരിട്ട് ഓഫ് സെറ്റിലുള്ള മറ്റ് ചങ്കുകളുമായി ബന്ധം വയ്ക്കാം ഗുഗിൾ ഫയൽ സിസ്റ്റത്തിന് ഫോൾട്ട് ടോളറൻറ് ഉണ്ട് മാസ്റ്റർ സ്ഥിരമായി ചങ്ക് സർവറുമായി സമ്പർക്കം പുലർത്തുന്നുണ്ട് അതിനെ നമുക്ക് ഹാർട്ട് ബീറ്റ് സന്ദേശങ്ങൾ എന്നു പറയാം അതായത് ജീവനുണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ ഇവിടെ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ ചങ്ക് സർവർ ചെയ്യുന്നു മാസ്റ്റർ ഇത് വീണ്ടും ചെയ്തു നോക്കുന്നു ചങ്ക് സർവറിൽ തെറ്റുവരുകയാണെങ്കിൽ മെറ്റാഡേറ്റാ അതിനെ പ്രതിഫലിപ്പിക്കുന്നു അതു കാരണം ചങ്ക് സർവർ മെറ്റാഡേറ്റാക്ക് ഇവിടെ തെറ്റ് ഉണ്ടെന്നു പറയുന്നു അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾക്ക് പ്രൈമറി സർവറിൽ വരുന്ന തെറ്റുകളെ മാറ്റി വക്കുവാൻ ഉള്ള ആവശ്യം വരുന്നില്ല മാസ്റ്റർ പുതിയ പ്രൈമറി തയാറാക്കുന്നു അങ്ങനെ പുതിയ പ്രൈമറി ഇവിടെ ജോലി ചെയ്യുവാൻ വരുന്നു എന്നിട്ട് ക്ലയന്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നു ഇടക്ക് ചങ്ക് സർവറിൽ തെറ്റുകൾ വരാറുണ്ട് അതുകാരണം അതിനെ ഫളാഗ് ഉപയോഗിക്കാം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാടു കാര്യങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് പല സമയങ്ങളിൽ എന്ന് അതുകാരണം ടൈം കീ ഉണ്ട് കോളം കീ ഉണ്ട് അത് പോലെ റോ കീയും ഉണ്ട് ഇതു വച്ച് നമുക്ക് ഡേറ്റാ എടുക്കുവാൻ പറ്റും അപ്പോൾ ബിഗ് ടേബിളിലെ ഓരോ കോളത്തിലും നമുക്ക് ആർബിട്രറി കോളം എന്നിവയെ വീണ്ടും ഉണ്ടാക്കാവുന്നതാണ് അവയ്ക്ക് ഒരുപാട് ഡേറ്റകളെ ടൈം സ്റ്റാമ്പിന്റെ കുറയുന്ന ക്രമത്തിൽ സൂക്ഷിക്കാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ കാലക്രമം പാലിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെ ഇവിടെ ഡിക്രിസിംഗ് ടൈം സ്റ്റാമ്പിൽ സൂക്ഷിക്കുന്നു ഇവിടെ നമുക്ക് പല തരത്തിലുള്ള ടാബ്ലറ്റുകളും കൂടുന്നു ഓരോ മെറ്റാ ഡേറ്റാ റ്റേബിളും കൈകാര്യം ചെയ്യുന്നത് മെറ്റാ ഡേറ്റാ സെർവർ ആണ് മെറ്റാ ഡേറ്റാ റ്റേബിൾ വളരെ വലുതാണ് അത് ഒരുപാടു കാര്യങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതിനെ വീണ്ടും നമ്മൾ വിഭജിച്ച് പല ടാബ്ലറ്റ്കൾ ആക്കും ഒരു റൂട്ട് ടാബലറ്റ് മറ്റ് മെറ്റാഡേറ്റാ ടാബലറ്റ്കളിലേക്ക് ചൂണ്ടികാണിക്കും അപ്പോൾ മെറ്റാഡേറ്റയുടെ ശേഖരം വളരെ വലുതാണെങ്കിൽ നമ്മൾ അതിനെ മുറിച്ച് പല ടാബലറ്റ് ഒരു പ്രത്യേക രീതിയിൽ ആണ് കൊടുക്കുക സാധാരണ കൂട്ടിച്ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലി ഇതിന് ആവശ്യമാണ് ഇത് മറ്റ് ഡേറ്റാബേസുകൾക്കും ബാധകമാണ് കാരണം ഒരിക്കൽ നിങ്ങൾ ഇതിനകത്ത് കടത്തിവിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡേറ്റയെ ഒരു സ്ഥലത്തേക്ക് നീക്കിവെക്കണം എന്നിട്ട് ഒരു ഇൻസേർഷൻ പോയിൻറ് തുടങ്ങണം അതേസമയം കൂട്ടിച്ചേർക്കുമ്പോൾ ഡേറ്റയെ സ്റ്റോറേജിന്റെ അല്ലെങ്കിൽ ടേബിളിന്റെ അറ്റത്തേക്ക് മാറ്റിവയ്ക്കുകയാണ് ഡൈനാമോ എന്നത് ആമസോൺ ഉണ്ടാക്കിയ ഒന്നാണ് അത് വളരെ വലിപ്പം ഉള്ളവയെയും സമകാലവർത്തി ആയിട്ടുള്ള അപ്ഡേറ്റുകളേയും സപ്പോർട്ട് ചെയ്യുന്നു ഇവയെല്ലാം ചെറിയ വലിപ്പമുള്ളവ ആയിരിക്കാം അത് ബിഗ് ടേബിളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് ബൾക്ക് റീഡിനെയും തരത്തിലുള്ള ആപ്ലിക്കേഷന് പറ്റിയതാണ് അത് വിതരണം ചെയ്തിട്ടുള്ള ഫയൽ സിസ്റ്റത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് തെറ്റിനെ കൈകാര്യം ചെയ്യുന്നതും റസലൂഷന് പ്രശ്നം വരുന്നതും എല്ലാത്തിനെയും ഇവർ സ്വന്തമായി കൈകാര്യം ചെയ്യുന്നു ഇതാണ് ഡൈനാമോയുടെ മാതൃകാപരമായിട്ടുള്ള ആർക്കിടെക്ചർ ഇവിടെ നമ്മുടെ കയ്യിൽ വർച്വൽ നോഡുകൾ ആണ് ഇവിടെ നമ്മൾ ഈ ഡൈയ്നാമോ ആർക്കിടെക്ച്ചർ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ഇതിന് കീവാല്യൂ ജോടികൾ ഉണ്ട് അതിന്റെ കൂടെ ബൈറ്റുകളുടെ മൂല്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ ഹാഷ് ഫംഗ്ഷനിന്റെ റേഞ്ച്നെ ഒരു കൂട്ടം വെർച്ചൽ നോടുകളായി ഒരു വട്ടത്തിൽ നമ്മൾ വക്കുകയാണ് ഒബ്ജക്റ്റിനെ ഇവിടെ പകർപ്പ് ആക്കിയിട്ട് പ്രൈമറി വെർച്ചലിനോട് ആക്കി വയ്ക്കുകയാണ് അതു പോലെ തന്നെ എൻ ന്യൂനം ഒന്ന് കൂടുതൽ വെർച്ചൽ നോടുകളായി വയ്ക്കുന്നു എൻ എന്നത് എത്ര ഫിസിക്കൽ നോടുകൾ ഉണ്ട് എന്നുള്ളതാണ് അതുകാരണം എത്ര ഒബ്ജക്റ്റുകളെ വേണമെങ്കിലും പകർപ്പ് ഉണ്ടാക്കി ഇവിടെ വയ്ക്കാം ഓരോ ഫിസിക്കൽ നോടുകളെയും നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നു അത് എത്ര വെർച്ചൽ നോട്കൾ ആയി ഈ വിതരണം ചെയ്യുന്ന വട്ടത്തിന്റെ സ്ഥലങ്ങളിൽ വയ്ക്കുകയാണ് ഇനി നിങ്ങൾ ഈ ഫിസിക്കൽ നോഡ് സർവറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത് അടിസ്ഥാനപരമായി വെർച്ചലിനോട് സർവറുകളായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് അടുത്തത് ടൈനാമോ ആർക്കിടെക്ച്ചറിൽ ലോഡ് ബാലൻസിങ്ങ് അത് ട്രാൻസിയൻറ് നെറ്റുകളെയും നെറ്റ്വർക്ക് വേർതിരിക്കുന്നതിനെയും കൈകാര്യം ചെയ്യുന്നു അടുത്തത് ഒരു ഒബ്ജക്റ്റിന് ഉള്ള അപേക്ഷ എഴുതുന്നത് അതിനെ ഒരു വെർച്ചൽനോടിൽ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എല്ലാ അപേക്ഷകളും എല്ലാ നോടുകളിലേക്കും അയച്ചു കൊടുക്കുന്നു ഇത് വെർച്ചൽ നോടുകളിലാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ അപേക്ഷകളെയും നമ്മൾ എല്ലാ നോടുകളിലേക്കും അയക്കുന്നു അവക്ക് ഒബ്ജക്റ്റിന്റെ പകർപ്പുകൾ ഉണ്ടാകും അടുത്തത് കോറം പ്രോട്ടോകോൾ ഒരുപാട് കൺകറന്റ് റീഡുകളും റൈയ്റ്റ്കളും വന്നു കഴിഞ്ഞാൽ അവയെ ഇവിടെ പകർപ്പുകളുടെ യോജിപ്പുകൾ കൈകാര്യം ചെയ്യുന്നു അടുത്തത് നമ്മുടെ കയ്യിൽ ഡൈനാമോ വിതരണം ചെയ്ത ഒബ്ജക്റ്റ് വേർഷൻ ഉണ്ട് അത് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു പുതിയ വേർഷൻ ലോക്കൽ ടൈം സ്റ്റാമ്പിൽ ഉണ്ടാക്കുന്നു ഇവിടെ കോളത്തിന്റെ കൺസിസ്റ്റൻസിക്കു ഉണ്ട് ഇവിടെ റീഡ് ഓപ്പറേഷന് R എന്നും റൈറ്റ് ഓപ്പറേഷന് W എന്നും കൊടുക്കുന്നു അപ്പോൾ RW എന്നത് N നെക്കാൾ കൂടുതൽ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തെ നമ്മൾ കോറം കൺസിസ്റ്റന്റ് DB ആമസോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിനെ MySQL ഉപയോഗിച്ചും ചെയ്യാം ഇവിടത്തെ അവസാനത്തെ ആശയം ഡേറ്റാ സ്റ്റോർ ആണ് ഗൂഗിളും ആമസോണും ലളിതമായിട്ടു നടത്താൻ പറ്റുന്ന കീവാല്യൂ ജോഡികൾ ഡേറ്റാബേസ് സ്റ്റോറിൽ തരുന്നു ഗൂഗിൾ എൻജിൻ ഡേറ്റാ സ്റ്റോറും ആമസോൺ സിമ്പിൾ DBയും എല്ലാ ഒബ്ജക്റ്റ്കളും ഡേറ്റാ സ്റ്റോർനകത്ത് ഒരു ബിഗ് ടേബിളിൽ ഉണ്ട് ഡേറ്റാ സ്റ്റോറ് കോളം ഓറിയന്റഡ് സ്റ്റോറേജാണ് ഉപയോഗിക്കുന്നത് അതായത് സൂക്ഷിച്ചു വക്കുന്ന ഡേറ്റകൾ കോളം ഫാമിലിയായിട്ടാണ് ഇരിക്കുക സാധാരണ നമ്മൾ റോ ഫാമിലി അല്ലെങ്കിൽ ടൂപ്പിൽ ആയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ കോളം ഫാമിലി ആണ് ഇവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ ഇൻഡക്സ് നല്ല കാര്യപ്രാപ്തിയുള്ള ചോദ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവയെ ഉപയോഗിക്കുന്നു അടുത്തത് ബിഗ്ടേബിളുകൾ ഡിസ്കിന് കുറുകെ വേർതിരിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആട്രിബ്യൂട്ട്കളുടെ മൂല്യങ്ങളെ കീ ആയി ഇവിടെ ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ പല തരത്തിലുള്ള ഇൻഡക്സസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ചെറിയ ഒരു ഡേറ്റാബേസ് അല്ല ഇത് വളരെ വലിയ ഒരു ഡേറ്റാബേസ് ആണ് അതുകൊണ്ട് എനിക്ക് ഈ മൊത്തം ഡേറ്റാബേസിനെ മദനം ചെയ്യാൻ സാധിക്കില്ല ഞാനവയെ ചെറുതായി മുറിച്ചെടുക്കണം അതുകാരണം പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇവയെ കുറച്ചുകൂടി നന്നായി ഉപയോഗിക്കാൻ സാധിക്കും വേറെയും പ്രോപ്പർട്ടികൾ ഇതിന് ഉണ്ട് അതിൽ ഒന്നാണ് തന്നത്താനെ ഇൻടക്സ്കൾ ഉണ്ടാക്കുന്നത് അവിടെ സിങ്കിൾ പ്രോപ്പർട്ടി ഇൻടക്സും തരത്തിലുള്ള ചോദ്യങ്ങളെ കൂടുതൽ കാര്യപ്രാപ്തിയോടെ നോക്കാൻ ഇത് സഹായിക്കുന്നു പിന്നെ കോൺഫിഗറുബിൾ ഇൻടക്സും ക്വായറി എക്സിക്യൂഷനും ഉണ്ട് ഭയങ്കര വലിയ സെലക്ടീവിറ്റിയുള്ള ഇൻടക്സ്സുകളെ തിരഞ്ഞെടുക്കുവാൻ ഇത് സഹായിക്കുന്നു ഇവിടെയാണ് നമ്മൾ ക്വയറിയെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം നമ്മൾ ഇവിടെ പല കാര്യങ്ങൾ നോക്കി സാമ്പ്രദായികമായിട്ടുള്ള ഡേറ്റാബേസിനെക്കുറിച്ചും ഫോൾട്ട് ടോളറന്റിനെക്കുറിച്ചും പലതരത്തിലുള്ള മെക്കാനിസത്തെക്കുറിച്ചും നോക്കി അവിടെ നിന്ന് നമ്മൾ കാര്യങ്ങളെ പാരലൽ എക്സിക്യൂട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും വളരെ വലിയ വലുപ്പമുള്ള ഡേറ്റയെ ക്ലൌഡിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ നോക്കി അതിനൊക്കെ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചു ചർച്ച ചെയ്തു നമുക്ക് ചിലപ്പോൾ കോളം ഓറിയൻറഡ് അല്ലെങ്കിൽ ട്യൂപ്യൂൾ ഓറിയൻറഡ് റിലേഷണൽ ഡേറ്റാബേസ് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുവരില്ല ക്ഷമിക്കണം റോ ഓറിയൻറഡ് ഡേറ്റാബേസ് നമുക്ക് വേണ്ടത് കോളം ഓറിയൻറഡ് ഡേറ്റാബേസ് ആണ് പിന്നെ ഇവിടെ പല തരത്തിലുള്ള ഫയൽ സിസ്റ്റം ഉണ്ട് അതായത് GFS HDFS എന്നുള്ളവ പിന്നെ നമ്മുടെ കയ്യിൽ ഡേറ്റാ സ്റ്റോറായ ഡൈനാമോ സിമ്പിൾ DB എന്നിവ ഉണ്ട് അവയ്ക്ക് പലതരത്തിലുള്ള ഇൻറർക്ലൌഡ് സർവീസ് പ്രൊവൈഡറുകൾ ഉണ്ട് അതായത് CSP കുറച്ചുകൂടി കാര്യപ്രാപ്തിയോടെ സ്റ്റോറേജിനെ എടുക്കാനും വായിക്കാനും എഴുതാനും എക്സിക്യൂട്ട് ചെയ്യാനും സഹായിക്കുന്നു